ഹലോ സെക്യുർ സിസ്റ്റംസ് എഞ്ചിനീയറിംഗിനായുള്ള കോഴ്സിലെ ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ട് പ്രഭാഷണങ്ങളിൽ ആക്രമണകാരിക്ക് സ്റ്റാക്കിലെ ഒരു പ്രത്യേക ദുർബലത എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് നമ്മൾ പരിശോധിച്ചു മുമ്പത്തെ പ്രഭാഷണത്തിൽ Return to Libc ആക്രമണത്തെക്കുറിച്ച് നമ്മൾ പരിശോധിച്ചിരുന്നു അവിടെ ആക്രമണകാരി സ്റ്റാക്കിൽ ഒരു ബഫർ overflow ചെയ്യുകയും റിട്ടേൺ വിലാസത്തെ Libc ലൈബ്രറിയിൽ ഒരു നിർദ്ദിഷ്ട ഫംഗ്ഷൻ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുകയും ചെയ്യുന്നു ആക്രമണകാരിയെ Libcയിലെ പ്രവർത്തനങ്ങളിൽ മാത്രം പരിമിതപ്പെടുത്തിയിട്ടില്ലാത്തതും എന്നാൽ ഏതെങ്കിലും അനിയന്ത്രിതമായ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്ന ഒരു പേലോഡ് സൃഷ്ടിക്കാൻ കഴിയുന്നതും ആക്രമണകാരി ഇത് ചെയ്യുന്ന രീതി ROP പ്രോഗ്രാമുകളുടെ ഒരു ആശയത്തിലൂടെയുമാണ് അല്ലെങ്കിൽ റിട്ടേൺ ഓറിയന്റഡ് പ്രോഗ്രാമിൽ കൂടിയാണെന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞു ഈ ആക്രമണങ്ങൾ പ്രോഗ്രാമുകൾക്കെതിരായ ഏറ്റവും നൂതനമായ ആക്രമണങ്ങളിൽ ചിലതാണ് ഈ പ്രഭാഷണത്തിൽ ROP Return to Libc തുടങ്ങിയ attacks തടയുന്നതിനുള്ള ASLR അല്ലെങ്കിൽ അഡ്രസ് സ്പേസ് Layout റാൻഡമൈസേഷൻ എന്നറിയപ്പെടുന്ന ഒരു ആശയം നമ്മൾ പരിശോധിക്കും ASLRന്റെ സ്വാധീനം മനസിലാക്കാൻ ഈ attacksനെ attackersൻറെ വീക്ഷണകോണിൽ നിന്ന് നമ്മൾ പരിശോധിക്കും ആക്രമണകാരികളുടെ പദ്ധതി ഇപ്രകാരമാണ് ആക്രമണകാരി ഒരു അപ്ലിക്കേഷനായി ഒരു exploit സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് നമുക്ക് പറയാം ഇവിടെയുള്ള ആപ്ലിക്കേഷൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിരിക്കുമെന്ന് നമുക്ക് പറയാം ഉദാഹരണത്തിന് ഇവിടെയുള്ള ആപ്ലിക്കേഷൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കേർണൽ ആകാം അതിനാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കേർണലിൽ ഒരു ദുർബലത കണ്ടെത്തുക എന്നതാണ് ആക്രമണകാരി ചെയ്യേണ്ട ആദ്യത്തെ കാര്യം സോഴ്സ് കോഡ് നോക്കുകയോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കേർണലിലേക്ക് പ്രയോഗിക്കുന്ന പാച്ചുകളിൽ എന്തെങ്കിലും ശ്രദ്ധിക്കുകയോ ചെയ്യുക വഴി ഈ പാച്ചുകളിലൊന്നിൽ കേടുപാടുകൾ ഉണ്ടെന്ന് കണ്ടെത്തുക അല്ലെങ്കിൽ പാച്ചുകൾ യഥാർത്ഥത്തിൽ ഒരു നിർദ്ദിഷ്ട കേടുപാടുകൾ പരിഹരിക്കുന്നു അല്ലെങ്കിൽ മൂന്നാമത്തെ മാർഗം CVE പിന്തുടരുക എന്നതാണ് സോഴ്സ് കോഡിൽ ഒരു പ്രത്യേക അപകടസാധ്യത കണ്ടെത്തിയാൽ അടുത്ത കാര്യം എക്സിക്യൂഷൻ അട്ടിമറിക്കാൻ ഈ ദുർബലത ഉപയോഗിക്കുക എന്നതാണ് നിർദ്ദിഷ്ട ആപ്ലിക്കേഷനിൽ ക്ഷുദ്ര കോഡ് കുത്തിവയ്ക്കാൻ ഈ ദുർബലത ഉപയോഗിക്കുക എന്നതാണ് അടുത്ത ഭാഗം ഉദാഹരണം ഓപ്പറേറ്റിംഗ് സിസ്റ്റം കേർണലാണ് ആപ്ലിക്കേഷൻ എങ്കിൽ ക്ഷുദ്ര കോഡിന് root userൻറെ പ്രത്യേകാവകാശങ്ങളുള്ള ഒരു ഷെൽ ലഭിക്കും ഇപ്പോൾ ആക്രമണകാരിക്ക് root userൻറെ പ്രത്യേകാവകാശങ്ങളുള്ള ഒരു ഷെൽ ലഭിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം അപ്പോൾ അയാൾക്ക് മുഴുവൻ സിസ്റ്റത്തിന്റെയും പൂർണ്ണ നിയന്ത്രണം ലഭിക്കും ഇപ്പോൾ ഈ കോഴ്സിൽ നമ്മൾ പഠിച്ച അവസാന മൂന്ന് ആക്രമണങ്ങളിൽ നിന്ന് മനസിലാക്കുന്നത് ആക്രമണകാരി എഴുതുന്ന പേലോഡുകൾ addressകളെ വളരെയധികം ആശ്രയിച്ചിരിക്കുന്നു എന്നതാണ് ഉദാഹരണത്തിന് ROP ആക്രമണത്തിൽ Libc ലൈബ്രറിയിൽ ഈ ഗാഡ്ജെറ്റുകൾ ഉള്ള കൃത്യമായ വിലാസങ്ങൾ ആക്രമണകാരിക്ക് അറിയേണ്ടതുണ്ട് ഉദാഹരണത്തിന് ഈ സാഹചര്യത്തിൽ ലൈബ്രറിയിൽ ഗാഡ്ജെറ്റ് 1 ഗാഡ്ജെറ്റ് 2 ഗാഡ്ജെറ്റ് 3 ഗാഡ്ജെറ്റ് 4 എന്നിവയുടെ വിലാസം എവിടെയാണെന്ന് ആക്രമണകാരിക്ക് അറിയേണ്ടതുണ്ട് അതിനാൽ ഒരു പ്രത്യേക സിസ്റ്റത്തിൽ ഈ ഗാഡ്ജെറ്റുകൾ കണ്ടെത്താൻ ആക്രമണകാരിക്ക് കഴിയുമെങ്കിൽ ആ ആക്രമണം വിജയിക്കുമെന്നാണ് ആക്രമണകാരിയുടെ അനുമാനം ആക്രമണകാരിക്ക് അത്തരം ഗാഡ്ജെറ്റുകൾ കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാക്കുന്നതിനായി Address Space Layout Randomization പ്രവർത്തിക്കുന്നു ഇതുവഴി ASLR നേടുന്നത് ഒരു ആപ്ലിക്കേഷന്റെ location random orderൽ ആക്കുകയും അതുവഴി ആക്രമണകാരിക്ക് നിർദ്ദിഷ്ട addresses ലഭിക്കുന്നത് പ്രയാസകരമാക്കുകയും ചെയ്യുന്നു എന്നതാണ് ഉദാഹരണത്തിന് ഈ ചിത്രത്തിൽ നമ്മൾ ഇവിടെ കാണുന്നതു പോലെ ഒരേ ആപ്ലിക്കേഷന്റെ മൂന്ന് വ്യത്യസ്ത ഇൻസ്റ്റൻസുകളുടെ മെമ്മറി layout കാണിക്കുന്നു നമ്മൾ ഇവിടെ കാണുന്നത് ആപ്ലിക്കേഷൻ പ്രവർത്തിപ്പിക്കുമ്പോഴെല്ലാം മെമ്മറി layout മാറുന്നു എന്നതാണ് ADVAP123 എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക ലൈബ്രറി ഇവിടെ എടുക്കാം ആപ്ലിക്കേഷന്റെ ആദ്യ ഭാഗത്ത് ഇത് ഒരു പ്രത്യേക സ്ഥലത്ത് ഉണ്ട് രണ്ടാമത്തെ runൽ ADVAP123 മറ്റൊരു സ്ഥലത്തും മൂന്നാം runൽ വേറൊരു സ്ഥാനത്തും ഉണ്ട് അതിനാൽ ആപ്ലിക്കേഷന്റെ ഓരോ runലും ഈ സ്ഥാനം മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ ഗാഡ്ജെറ്റുകൾ എവിടെയായിരിക്കുമെന്ന് കൃത്യമായ സ്ഥാനം തിരിച്ചറിയുന്നത് ആക്രമണകാരിക്ക് ബുദ്ധിമുട്ടാണ് അതുവഴി ROP ആക്രമണങ്ങൾ നടപ്പാക്കുന്നത് തടയുന്നു ASLR ഒരു പുതിയ ആശയമല്ല ഇത് 2001ൽ ലിനക്സ് പാക്സ് പ്രോജക്റ്റ് ആരംഭിച്ചു 2012 അല്ലെങ്കിൽ 2013 മുതൽ ഇത് വളരെ സാധാരണമാവുകയും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ default ആയി ചേർക്കുകയും ചെയ്തു വിൻഡോസ് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ ഇപ്പോൾ ASLR നെ പിന്തുണയ്ക്കുന്നു ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിൽ ASLR ലൈബ്രറികളുടെ സഥാനങ്ങൾ heapന്റെ സ്ഥാനം സ്റ്റാക്ക് മുതലായവ ഓരോ runലും ഓരോ വ്യത്യസ്ത addressesൽ ആയിരിക്കും നിങ്ങൾ ഉപയോഗിക്കുന്നത് ലിനക്സ് സിസ്റ്റമാണെങ്കിൽ പ്രത്യേകിച്ചും Ubuntu സിസ്റ്റങ്ങളിൽ ASLR പ്രവർത്തനക്ഷമമാക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിർണ്ണയിക്കാൻ procsyskernelrandomize va space എന്ന ഫയൽ ക്രാക്ക് ചെയ്താൽ മനസിലാകും ഈ ഫയലിന് 0 1 അല്ലെങ്കിൽ 2 എന്ന 3 എന്നീ values ഉണ്ടായിരിക്കും 0 എന്നത് ആ പ്രത്യേക സിസ്റ്റത്തിൽ ASLR disbale ചെയ്തു എന്നാണ് അർത്ഥമാക്കുന്നത് 2 എന്നത് ഏറ്റവും ഉയർന്ന റാൻഡമൈസേഷനെ സൂചിപ്പിക്കുന്നു 1 എന്നത് സ്റ്റാക്കിന്റെ സ്ഥാനം VDSO share memory areas എന്നിവ radndomised locationsൽ ആണെന്ന് സൂചിപ്പിക്കുന്നു 2 എന്നത് 1 എന്ന value ഉപയോഗിച്ച് നേടിയ എല്ലാ റാൻഡമൈസേഷനും സാധ്യമാക്കുന്നതിന് പുറമേ data segmentൻറെ addressഉം randomized ആക്കുന്നു അതിനാൽ 2 ഇപ്പോൾ മിക്ക ലിനക്സ് സിസ്റ്റങ്ങളിലും defualt ക്രമീകരണമാണ് സ്ലൈഡ് നോക്കുക Time 722 അതിനാൽ നമുക്ക് ASLR എങ്ങിനെ പ്രവർത്തിക്കുന്നുവെന്ന് നോക്കാം അതിനായി നിങ്ങൾക്ക് ഒരു പ്രത്യേക പ്രോഗ്രാം run ചെയ്യാവുന്നതാണ് ആ പ്രോഗ്രാമിന്റെ PID കണ്ടെത്തുക നാം മുമ്പ് ചെയ്തതുപോലെ cat procPID of that processmaps എന്ന കമാൻഡ് ഉപയോഗിച്ച് ആ പ്രോഗ്രാമിന്റെ മെമ്മറി സ്പേസ് നോക്കുക നിങ്ങൾ അതേ പ്രോഗ്രാം വീണ്ടും പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു PID ലഭിക്കും കൂടാതെ ആ പുതിയ പ്രോസസ്സിനായുള്ള memory മാപ്പുകൾ നോക്കുകയാണെങ്കിൽ അത് മറ്റൊരു ഒരു അഡ്രസ് സ്പേസിലേക്ക് മാറിയതായി കാണാം ASLR കാരണമാണ് ഇങ്ങിനെ സംഭവിക്കുന്നത് നമുക്ക് Libc ലൈബ്രറി എടുക്കാം ആദ്യം run ചെയ്യുമ്പോൾ Libc libray 0xb75d000 എന്ന addressലാണ് രണ്ടാമത്തെ executionൽ അതേ Libc ലൈബ്രറി 0xb75de000ൽ ഉണ്ട് അതിനാൽ ആപ്ലിക്കേഷന്റെ ഓരോ executionലും ആപ്ലിക്കേഷന്റെ മെമ്മറി address ആ ആപ്ലിക്കേഷനായുള്ള വെർച്വൽ address മാപ്പ് എന്നിവ മാറുന്നതായി നമുക്ക് കാണാം ഇപ്പോൾ ഒരു വെർച്വൽ address മാപ്പ് മാറുന്നതിനാൽ ഗാഡ്ജെറ്റിന്റെ സ്ഥാനങ്ങൾ മാറും അതിനാൽ ആക്രമണകാരി സൃഷ്ടിച്ച ROP space attack എല്ലായ്പ്പോഴും പ്രവർത്തിക്കില്ല നിങ്ങളുടെ ലിനക്സ് processകൾക്കായി etcsysctl conf എന്ന ഈ ഫയൽ എഡിറ്റുചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ASLR ന്റെ മൂല്യം മാറ്റാൻ കഴിയും ഇതിൽ നിങ്ങൾ kernel randomize va space എന്ന് എന്ന ഒരു വരി ചേർത്ത് 0 1 അല്ലെങ്കിൽ 2 എന്ന value കൊടുത്താൽ നിങ്ങളുടെ സിസ്റ്റത്തിൻറെ ASLR configuration modify ചെയ്യാൻ പറ്റും ASLRന്റെ ഇന്റേണലുകൾ നോക്കാം ഇത് മനസിലാക്കാൻ ലൈബ്രറികൾ എങ്ങനെ relocatable ആക്കാമെന്ന് അറിയേണ്ടതുണ്ട് അടിസ്ഥാനപരമായി ഇത് നേടാൻ രണ്ട് വഴികളുണ്ട് ഒന്ന് ലോഡ് ടൈം റീലോക്കേറ്റബിൾ എന്നും മറ്റൊന്ന് പൊസിഷൻ ഇൻഡിപെൻഡന്റ് എക്സിക്യൂട്ടബിൾ അല്ലെങ്കിൽ പൊസിഷൻ ഇൻഡിപെൻഡന്റ് കോഡ് എന്നും അറിയപ്പെടുന്നു ലൈബ്രറികൾ Load time relocatable ആകുമ്പോൾ loader ഓരോ library ലൂടെ pass ചെയ്തു ഓരോ addressഉം ശരിയായി ക്രമീകരിക്കുകയും ചെയ്യും അങ്ങനെ ലൈബ്രറി ശരിയായ രീതിയൽ പ്രവർത്തിക്കുന്നു PICയിൽ ഇതേ ലക്ഷ്യം നേടുന്നതിന് relative addressing ഉപയോഗിക്കുന്നു അതിനാൽ PIC executablesനെയും load time relocatableനെയും കൂടുതലായി പഠിക്കാം അതിനാൽ ലോഡ് സമയം relocatable ആയ ഒരു ലൈബ്രറി create ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇതിനായി നമുക്ക് ഒരു പുതിയ ലൈബ്രറി create ചെയ്യാം ഇതിൽ mylib int എന്ന ഒരു global variable ഉൾപ്പെടുന്നു ഇതിന് set mylib int get mylib int എന്നിങ്ങനെ രണ്ട് ഫംഗ്ഷനുകളുണ്ട് set mylib int എന്ന ഫംഗ്ഷൻ X എന്ന parameterൻറെ value mylib int എന്ന global variableന് initialise ചെയ്യുന്നു get mylib int എന്ന രണ്ടാമത്തെ ഫംഗ്ഷൻ mylib int എന്ന global variableൻറെ നിലവിലെ value return ചെയ്യുന്നു അതിനാൽ ഇവിടെ കാണിച്ചിരിക്കുന്നതുപോലെ gcc ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ലൈബ്രറി കംപൈൽ ചെയ്യാൻ കഴിയും ഈ കോഡ് source relocgot എന്ന directory നിന്നും ലഭിക്കും ലോഡ് ടൈം റീലോക്കേറ്റബിൾ കോഡ് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് മനസിലാക്കാൻ objdump ഉപയോഗിച്ച് നമ്മൾ ഈ ലൈബ്രറി ഡിസ്അസംബ്ലിംഗ് ചെയ്യുന്നു ഇപ്പോൾ നാം set mylib int എന്ന ഫംഗ്ഷൻ ആണ് പരിശോധിക്കുന്നത് അതിനാൽ നമ്മൾ ഇവിടെ കാണുന്നതു പോലെ ഇവ set mylib int എന്ന functionൻറെ നിർദ്ദേശങ്ങളാണ് ആദ്യ രണ്ട് നിർദ്ദേശങ്ങൾ ആ ഫംഗ്ഷനായി സ്റ്റാക്ക് ഫ്രെയിം സൃഷ്ടിക്കുന്നു ഇവിടെയുള്ള മൂന്നാമത്തെ നിർദ്ദേശം EBP പ്ലസ് 8 locationൽ നിലവിലുള്ള X ന്റെ ഉള്ളടക്കത്തെ നീക്കുന്നു ഇത് ഈ ഫംഗ്ഷന്റെ ആർഗ്യുമെന്റാണ് അതിനാൽ ആർഗ്യുമെൻറ് X EAX രജിസ്റ്ററിലേക്ക് നീങ്ങുന്നു തുടർന്ന് Xന്റെ ഉള്ളടക്കങ്ങൾ ഗ്ലോബൽ mylib int ലേക്ക് സ്റ്റോർ ചെയ്യണം ഇത് ചെയ്യുന്നതിന് move നിർദ്ദേശമുണ്ട് ഇവിടെ EAX രജിസ്റ്റർ 0X0 ലേക്ക് നീക്കുന്നു അതിനാൽ ഈ 0X0 കംപൈലർ ഇട്ട ഒന്നാണ് കാരണം ഈ ലൈബ്രറി ലോഡ് ടൈം റീലോക്കേറ്റബിൾ ലൈബ്രറിയാണ് അടുത്തതായി ഈ പ്രത്യേക ലൈബ്രറി ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാം യഥാർത്ഥത്തിൽ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം അതിനാൽ നമ്മൾ ചെയ്യുന്നത് ഒരു പ്രോഗ്രാം സൃഷ്ടിച്ച് ഈ പ്രത്യേക ലൈബ്രറിയിലേക്ക് ലിങ്ക് ചെയ്യുക തുടർന്ന് ആ പ്രോഗ്രാമിൽ GDB ഉപയോഗിക്കുക Mylib int ന്റെ യഥാർത്ഥ വിലാസം ഇവിടെ പൂരിപ്പിച്ചിട്ടില്ല എന്നത് ശ്രദ്ധിക്കുക വാസ്തവത്തിൽ ഇത് 0X0 ആണ് അതിനാൽ പ്രതീക്ഷിക്കുന്നത് ഈ ലൈബ്രറി ലോഡുചെയ്യുമ്പോൾ ലോഡർ ഈ ഓരോ ഫംഗ്ഷനുകളിലൂടെയും കടന്നു പോകുകയും 0X0നെ mylib intന്റെ യഥാർത്ഥ address ഉപയോഗിച്ച് overwrite ചെയ്യുകയും ചെയ്യുന്നു ഇതിനായി ലൈബ്രറിയിൽ പ്രത്യേക വിഭാഗമുണ്ട് അത് ലോഡ് സമയത്ത് ഒബ്ജക്റ്റ് ഫയൽ modify ചെയ്യേണ്ട സ്ഥലങ്ങൾ നിർണ്ണയിക്കാൻ ലോഡറിനെ അനുവദിക്കും അതിനാൽ ഈ പ്രത്യേക വിഭാഗത്തെ Relocatbale Table എന്ന് വിളിക്കുന്നു അതിനാൽ command readelf r libmylib so എന്ന കമാൻഡ് ഉപയോഗിച്ച് നമുക്ക് ഇത് നേടാൻ കഴിയും അതാണ് നമ്മൾ സൃഷ്ടിച്ച ലൈബ്രറി നമുക്ക് ഇവിടെ നിരവധി എൻട്രികൾ ഉണ്ടെന്ന കാര്യം ശ്രദ്ധിക്കുക എന്നാൽ നാം പ്രത്യേകം ശ്രദ്ധിക്കുന്ന രണ്ട് എൻട്രികൾ ഒന്നാമത്തേതും രണ്ടാമത്തേതുമാണ് അതിനാൽ ഈ എൻട്രികൾ ഓരോന്നും ലോഡർ പരിഷ്ക്കരിക്കേണ്ട ലൈബ്രറി കോഡിലെ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കുന്നു കൃത്യമായി രണ്ട് സ്ഥലങ്ങളിൽ mylib int ഉപയോഗിക്കുന്നുവെന്നത് ശ്രദ്ധിക്കുക ഒന്ന് ഈ ഘട്ടത്തിൽ set mylib int ഫംഗ്ഷനിലാണ് രണ്ടാമത്തേത് ഈ സ്ഥാനത്ത് get mylib int ആണ് ഈ സ്ഥലങ്ങളിൽ ഓരോന്നിനും ഈ പ്രത്യേക പട്ടികയിൽ ഒരു എൻട്രി ഉണ്ട് നാം modify ചെയ്യേണ്ട ലൊക്കേഷനുകൾ ഒബ്ജക്റ്റ് fileൽ 473 47d എന്നീ ഓഫ്സെറ്റ്കളിൽ ആണെന്ന് ശ്രദ്ധിക്കുമല്ലോ 473 എന്ന ലൊക്കേഷൻ 0X0ൻറെത് ആണെന്ന് കാണാം ഇത് ഒരു ഓഫ്സെറ്റ് 472 അതായത് A3 ആണെന്നും 472 ഓഫ്സെറ്റിലാണെന്നും 473 ഈ പ്രത്യേക zeors അതിനെ സൂചിപ്പിക്കുന്നു ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ആ type ആണ് അവകളിൽ ഓരോന്നും 32 ബിറ്റ് ആണ് അതിനാൽ ഈ പ്രത്യേക ലൈബ്രറി ലോഡുചെയ്യുന്ന സമയത്ത് ലോഡർ ഈ പട്ടികയിലേക്ക് നോക്കുകയും ഈ പട്ടികയിലെ ഓരോ വരിയിലൂടെയും കടന്നു പോകുകയും ചെയ്യും ഇത് 473 ലൊക്കേഷനിലൂടെ 0X0ൻറെത് പോകും ഇവിടെ ഒരു 32 ബിറ്റ് മൂല്യം ആവശ്യമാണെന്ന് ഇത് നിർണ്ണയിക്കും ഈ value mylib int0X0ൻറെത് ആണ് അതിനാൽ ഇത് mylib intൻറെ ശരിയായ address 0X0ൽ store ചെയ്യും ഇനി നമുക്ക് ലോഡർ യഥാർത്ഥത്തിൽ അതിന്റെ ജോലി ചെയ്യുന്നുണ്ടോയെന്ന് പരിശോധിക്കാം ഇതിനായി നമുക്ക് ഒരു ചെറിയ പ്രോഗ്രാം എഴുതാൻ കഴിയും അത് ഈ പ്രത്യേക ലൈബ്രറിയിലേക്ക് ലിങ്ക് ചെയ്യും അത് ആ പ്രോഗ്രാം കംപൈൽ ചെയ്യുകയും ആ പ്രത്യേക പ്രോഗ്രാം ഡീബഗ് ചെയ്യുന്നതിന് GDB ഉപയോഗിക്കുകയും ചെയ്യും ഇതിനുവേണ്ടി ഒരു ബ്രേക്ക്പോയിൻറ് set ചെയ്യണം തുടർന്ന് ബ്രേക്ക്പോയിൻറ് hit ചെയ്യുമ്പോൾ നമ്മൾ GDBയിൽ set mylib int ഡിസ്അസംബ്ലിംഗ് ചെയ്യുന്നു Compiler produce ചെയ്ത അസംബ്ലി കോഡും GDB disassemble ചെയ്ത അസംബ്ലി കോഡും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിക്കുക ഈ അസംബ്ലി കോഡ് ലൈബ്രറി സമാഹരിച്ചതിനുശേഷം കംപൈലർ നൽകുന്നതാണ് അതേസമയം ലോഡർ ലൈബ്രറി address spaceൽ ചേർത്തതിനുശേഷം റൺടൈമിൽ ലഭിക്കുന്നതാണ് ഈ അസംബ്ലി കോഡ് ശ്രദ്ധിക്കുക ഇവിടെ push EBP mov stack pointer base pointer തുടങ്ങിയ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ഈ രണ്ട് codeകളിലും കാണാം മാത്രമല്ല നിലവിലുള്ള 0X0 എന്ന addressന് പകരം B7FTF5F8 എന്ന address ആണുള്ളത് ഇത് mylib int ന്റെ യഥാർത്ഥ address ആകുന്നു അതിനാൽ ലോഡർ തന്റെ ജോലി നിർവഹിച്ചതായി നാം കാണുന്നു കാരണം loader ഈ സ്ഥാനത്ത് പൂജ്യത്തെ മാറ്റി mylib intന്റെ യഥാർത്ഥ address നൽകി അതുപോലെ mylib int ന്റെ ശരിയായ വിലാസത്തിലേക്ക് പോയിന്റുചെയ്യുന്നതിന് ഈ get mylib int എന്നതിലെ mylib int മാറ്റിസ്ഥാപിച്ചിട്ടുണ്ടെന്നും നിങ്ങൾക്ക് പരിശോധിക്കാം Load Time relocatable techniqueൻറെ പരിമിതികൾ ഇവയാണ് അതിൻറെ load time വളരെ മന്ദഗതിയിലാണ് ഇതിനു കാരണം loaderന് load timeൽ modify ചെയ്യേണ്ട ഓരോ addressൻറെയും value യഥാർത്ഥ address മാറ്റേണ്ടതുണ്ട് രണ്ടാമതായി ഇതിന് എഴുതാൻ കഴിയുന്ന ഒരു കോഡ് സെഗ്മെന്റ് ആവശ്യമാണ് അത് ചില പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം എക്സിക്യൂട്ടബിൾ കോഡ് പങ്കിടുന്നത് തടയുന്നു എന്നതാണ് ലോഡ് ടൈം റീലോക്കേറ്റബിൾ ടെക്നിക്കിന്റെ മൂന്നാമത്തെ പരിമിതി ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകില്ല പക്ഷേ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിൽ copy on right എന്ന് വിളിക്കുന്ന ഒരു പ്രക്രിയയുണ്ട് അവിടെ സാധാരണയായി ലൈബ്രറി കോഡുകൾ എല്ലാം സിസ്റ്റത്തിലെ എല്ലാ processകൾക്കിടയിലും പങ്കിടുന്നു ഓരോ പ്രോഗ്രാം കോഡിനും ലൈബ്രറിയുടെ customize ചെയ്യപ്പെട്ട പകർപ്പ് ഉണ്ടായിരിക്കണം എന്നതാണ് Load Time relocatable techniqueൻറെ മൂന്നാമത്തെ പരിമിതി ഈ പ്രക്രിയ പ്രായോഗികമായി നമുക്ക് വേണ്ടതല്ല പ്രായോഗികമായി program codeൻറെ തനിപ്പകർപ്പ് തടയുന്നതിന് ഒരു മെഷീനിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രോഗ്രാമുകളും പങ്കിട്ട ലൈബ്രറിയുടെ അതേ പകർപ്പ് ഉപയോഗിക്കും ഉദാഹരണത്തിന് Lib സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രോഗ്രാമുകളും Libcൻറെ അതേ പകർപ്പ് ഉപയോഗിക്കും അതിനാൽ RAMൽ Libcയുടെ duplicate copies ഉണ്ടാകേണ്ടതില്ല എന്നിരുന്നാലും Load Time relocatable methodൽ ഓരോ പ്രോഗ്രാമിനും ലൈബ്രറിയുടെ customozed copy ആവശ്യമുള്ളതിനാൽ അത്തരം പങ്കിടൽ സാധ്യമല്ല പ്രോഗ്രാമബിൾ ഇൻഡിപെൻഡന്റ് കോഡ് ടെക്നിക് ഉപയോഗിച്ച് ലോഡ് ടൈം റീലോക്കേറ്റബിൾ ടെക്നിക്കിന്റെ ധാരാളം പോരായ്മകൾ പരിഹരിക്കാവുന്നതാണ് അതിനാൽ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് processന്റെ വെർച്വൽ address spaceൽ ലൈബ്രറികൾ relocate ചെയ്യാൻ കഴിയും അതിനാൽ കോഡിലെ ഓരോ addressഉം മാറ്റുന്നതിന് ലോഡറിനെ ആശ്രയിക്കുന്നതിനുപകരം ധാരാളം relative addresses കൂടുതലായി ഉപയോഗിക്കുന്നു എന്നതാണ് ഇവിടെ ചെയ്യുന്നത് Global Offset Table എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക table ഇതിനായി ഉപയോഗിക്കുന്നു ഈ PIC എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും ഒരു വേരിയബിളിന്റെ യഥാർത്ഥ address resolve ചെയ്യുന്നതിന് GOT എങ്ങനെ ഉപയോഗിക്കുന്നുവെന്നും നമുക്ക് നോക്കാം ഈ EDX registerലേക്ക് ഒരു വേരിയബിളിന്റെ address നീക്കാൻ നാം ഇതുപോലുള്ള ഒരു instruction ഉപയോഗിക്കുന്നുണ്ടെന്ന് കരുതുക GOT ഉപയോഗിക്കാതെ ഈ വേരിയബിളിന്റെ യഥാർത്ഥ address വിലാസം കണ്ടു പിടിക്കുന്നത് എങ്ങിനെയെന്നു നോക്കാം അതിനാൽ ഈ പ്രത്യേക നിർദ്ദേശം non relocatable code ആകും എന്നാൽ നിങ്ങൾ ഒരു GOT ഉപയോഗിക്കുന്നു എങ്കിൽ ഈ ഒരൊറ്റ നിർദ്ദേശം ഇനിപ്പറയുന്ന മൂന്ന് നിർദ്ദേശങ്ങളായി പരിവർത്തനം ചെയ്യപ്പെടും ആദ്യം GOTയുടെ വിലാസം EDX എന്ന ഈ രജിസ്റ്ററിൽ ലോഡുചെയ്യുന്നു തുടർന്ന് പട്ടികയിലെ 16 ബൈറ്റുകളുടെ ഒരു ഓഫ്സെറ്റ് ഈ രജിസ്റ്റർ EDX ലേക്ക് ലോഡുചെയ്യുന്നു ഇപ്പോൾ EDX 16 bytes എന്ന ലൊക്കേഷൻ ഈ പ്രത്യേക വേരിയബിളിന്റെ യഥാർത്ഥ വിലാസമാണ് അടുത്തതായി ഈ രജിസ്റ്ററിലേക്ക് EDX രജിസ്റ്ററിലെ contents ലോഡ് ചെയ്യുകയാണ് ഈ വേരിയബിളിന്റെ address EDX രജിസ്റ്ററിലേക്ക് നേരിട്ട് ലോഡുചെയ്യുന്നതിനു പകരം അപ്രകാരം ചെയ്താൽ കോഡ് non relocatable ആകും GOT ഉപയോഗിക്കാം GOTയിൽ variablesൻറെ യഥാർത്ഥ addresses അടങ്ങിയിരിക്കുന്നു അതിനാൽ GOTയുടെ content ലോഡുചെയ്യുകയും EDXന്റെ content ഉപയോഗിച്ച് യഥാർത്ഥ വേരിയബിളിനെ നേരിട്ട് ആക്സസ് ചെയ്യുകയും ചെയ്യുന്നു ഇനി നമ്മൾ സൃഷ്ടിച്ച ലൈബ്രറി എടുത്ത് ഈ GOT ഉപയോഗിക്കുന്നതിന് കംപൈലർ എങ്ങനെ കോഡ് സൃഷ്ടിക്കുന്നുവെന്ന് നോക്കാം നമ്മുടെ കോഡ് രണ്ട് ലൈബ്രറി ഫംഗ്ഷനുകളായ set mylib int get mylib int എന്നിവ ഉൾക്കൊള്ളുന്നതാണ് അതിലും പ്രധാനമായി ഈ പ്രത്യേക സമയത്ത് ഈ പ്രത്യേക global വേരിയബിൾ mylib int ആണ് relocatable കോഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ കണ്ടു ഇപ്പോൾ PIC ഉപയോഗിച്ച് set mylib intനായി കോഡ് വളരെ വ്യത്യസ്തമായി കാണപ്പെടുന്നു അതിനാൽ നമ്മൾ കാണുന്നത് i686 get pc thunk cx എന്ന് വിളിക്കുന്ന ഫംഗ്ഷനുലേക്ക് ഒരു കോൾ ഉണ്ട് കൂടാതെ മറ്റ് ചില മാറ്റങ്ങളും ഉണ്ട് നമുക്ക് ഇതിൻറെ കൂടുതൽ വിശദാംശങ്ങൾ നോക്കാം ആദ്യം നമ്മൾ കാണുന്നത് ഈ പ്രത്യേക ഫംഗ്ഷനിലേക്കുള്ള ഒരു call instruction ആണ് അത് സ്റ്റാക്ക് പോയിന്ററിലെ ഉള്ളടക്കങ്ങൾൾ ECX രജിസ്റ്ററിൽ സംഭരിക്കുകയും പിന്നീട് മടങ്ങുകയും ചെയ്യുന്നു ഈ പ്രത്യേക instructionന്റെ വിലാസം നമ്മുടെ പക്കലുണ്ട് ഇപ്പോൾ നിങ്ങൾ ഈ ECX രജിസ്റ്ററിലെ ഉള്ളടക്കത്തിലേക്ക് 1180 ചേർക്കുന്നു 1180 എന്ന value GOTയുടെ ഓഫ്സെറ്റാണ് അതിനാൽ EXC 1180 ആണ് GOTലേക്കുള്ള offset കൂടാതെ ECXൽ നിന്ന് 8 ബൈറ്റുകൾ നമ്മൾ കുറയ്ക്കുന്നു ഇത് GOTയിലെ ഓഫ്സെറ്റാണ് അതിൽ mylib intന്റെ actual address അടങ്ങിയിരിക്കുന്നു അതിനാൽ mylib intന്റെ ഈ യഥാർത്ഥ വിലാസം EAX registerലേക്ക് move ചെയ്യുന്നു മൂന്നാമതായി EAX register point ചെയ്യുന്ന locationലേക്ക് EDX registerന്റെ contents store നീങ്ങുന്നു അതിനാൽ EAX രജിസ്റ്ററിൽ mylib intന്റെ ശരിയായ addressലേക്കുള്ള പോയിന്റർ അടങ്ങിയിരിക്കുന്നു അതിനാൽ store instruction EDX രജിസ്റ്ററിലെ content mylib intന്റെ ശരിയായ address ആയി store ചെയ്യുന്നു GOTയുടെ കൂടെ PIC ടെക്നിക് ഉപയോഗിക്കുന്നതിലൂടെ ലോഡ് സമയം ഗണ്യമായി കുറക്കാൻ പറ്റും Global ഡാറ്റ ഉപയോഗിക്കുന്ന ഓരോ locationഉം ലോഡർ മാറ്റുന്ന മുൻ കേസുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ global ഡാറ്റയുടെ ശരിയായ address സംഭരിക്കുന്ന ഒരൊറ്റ GOT ഉപയോഗിക്കുന്നു അതിനാൽ ലൈബ്രറി ലോഡു ചെയ്യുന്നതിലൂടെ ഓവർഹെഡുകൾ ഗണ്യമായി കുറയുന്നു കൂടാതെ നിങ്ങൾ കോഡ് മാറ്റുന്നില്ലെങ്കിൽ കോഡ് സെഗ്മെന്റുകൾ writeable ആകേണ്ട ആവശ്യമില്ല ഇത് ലോഡ് ടൈം റീലോക്കേറ്റബിൾ ടെക്നിക്ൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് അതിൽ കോഡ് സെഗ്മെന്റ് writable ആയിരിക്കണം കൂടാതെ ഓരോ പ്രോഗ്രാമിനും customized libraries ആവശ്യമില്ലാത്തതിനാൽ സിസ്റ്റത്തിലെ വിവിധ പ്രോഗ്രാമുകൾക്കിടയിൽ ലൈബ്രറികൾ പങ്കിടാൻ കഴിയും GOT കാരണം ഈ ഗുണങ്ങളെല്ലാം നേടാനാകും ഡാറ്റാ segmentൽ GOT ഉണ്ട് ഡാറ്റാ സെഗ്മെൻറ് writeable ആണ് താനും അതിനാൽ ലോഡ് സമയത്ത് loaderന് GOT fill ചെയ്താൽ മതി ഈ പ്രത്യേക സ്കീമിന്റെ പോരായ്മ ഇപ്പോൾ റൺടൈം ഓവർഹെഡുകൾ വർദ്ധിച്ചു എന്നതാണ് ഒരു പ്രത്യേക വേരിയബിളിനെ നേരിട്ട് പോയി ആക്സസ് ചെയ്യുന്നതിനു പകരം ഇപ്പോൾ നമ്മൾ GOT പട്ടികയിൽ നിന്ന് യഥാർത്ഥ വേരിയബിൾ കണ്ടെത്തി ആ പ്രത്യേക വേരിയബിളിലേക്ക് ഒരു indirect ആക്സസ് നടത്തേണ്ടതുണ്ട് അങ്ങനെ റൺടൈം വർദ്ധിക്കും GOTനൊപ്പം പ്രവർത്തിക്കുന്നതിന്റെ ഒരു ഉദാഹരണം നോക്കാം global ഡാറ്റയുള്ള ഈ ചെറിയ ഉദാഹരണം നോക്കാം myglob എന്ന globnal varaiableലേക്ക് 32 initlialise ചെയ്തു പ്രോഗ്രാമിൽ myglobൻറെ valueവിനോട് 5 വർദ്ധിപ്പിച്ച് ആ value return ചെയ്യുന്നു കംപൈലർ ഒരു GOT സൃഷ്ടിക്കുന്നതിനായി കംപൈൽ സമയത്ത് shared fpic എന്ന അധിക ഓപ്ഷൻ കൊടുക്കേണ്ടതുണ്ട് ഈ പ്രോഗ്രാമിനായുള്ള അസംബ്ലി കോഡ് ഇതുപോലെയാണ് ഇതിന് ഇവിടെ ഒരു ഡാറ്റ section ഉണ്ട് അതിൽ myglob ഉണ്ട് text sectionൽ ഇതിൻറെ കോഡുകൾ ഉണ്ട് കംപൈലർ i686 get pc thunk cx എന്ന ഒരു additional function സൃഷ്ടിച്ചുവെന്നത് ശ്രദ്ധിക്കുക അത് അടുത്ത നിർദ്ദേശത്തിന്റെ വിലാസം ECXലേക്ക് ലോഡ് ചെയ്യുന്നു ഈ പ്രത്യേക നിർദ്ദേശം GOTയുടെ ഓഫ്സെറ്റ് ECX രജിസ്റ്ററിലേക്ക് ചേർക്കുന്നതായി കാണാം GOTയിൽ നിന്ന് EAX രജിസ്റ്ററിലേക്ക് myglob എന്ന ഗ്ലോബൽ വേരിയബിളിന്റെ address നമ്മൾ ലോഡുചെയ്യുന്നു അങ്ങിനെ നമുക്ക് indirect ആയി myglob EAX രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യാൻ കഴിയും ഈ നാല് നിർദ്ദേശങ്ങൾക്ക് ശേഷം EAX രജിസ്റ്ററിലെ ഉള്ളടക്കങ്ങൾ ലോഡുചെയ്യാൻ കഴിഞ്ഞു ഈ പ്രത്യേക കോഡിന്റെ ഡിസ്അസംബ്ലിംഗ് ഇതുപോലെയാണെന്ന് തോന്നുന്നു അതിൽ ഈ myglob എന്ന global variable അടങ്ങുന്ന ഒരു ഡാറ്റ സെഗ്മെന്റ് ഉണ്ടെന്നും കോഡ് സെഗ്മെന്റുകൾ ഈ text എന്ന പ്രത്യേക വിഭാഗത്തിൽ നിന്ന് ആരംഭിക്കുന്നു വെന്നും കാണാം ഇവ വിശകലനം ചെയ്യേണ്ട പ്രധാന നിർദ്ദേശങ്ങളാണ് അതിനാൽ ആദ്യം നമ്മൾ കാണുന്നത് ഈ get pc thunk ലേക്ക് ഒരു കോൾ ഉണ്ടെന്നാണ് ഈ കോൾ ചെയ്യുമ്പോൾ ഈ പ്രത്യേക ഫംഗ്ഷനിലേക്ക് exeuction jump ചെയ്യുന്നു സ്റ്റാക്ക് പോയിന്ററിലെ contents ഈ ECX രജിസ്റ്ററിലേക്ക് നീക്കുകയും ചെയ്യുന്നു ECX രജിസ്റ്ററിൽ ഈ addl എന്ന പ്രത്യേക നിർദ്ദേശത്തിന്റെ address അടങ്ങിയിരിക്കുന്നു ഈ നിർദ്ദേശത്തിൽ ചെയ്യുന്നത് ഈ ECX രജിസ്റ്ററിലേക്ക് global offset table ആയ GOT പട്ടികയുടെ ഓഫ്സെറ്റ് ചേർക്കുക എന്നതാണ് ഇപ്പോൾ ECX രജിസ്റ്ററിൽ GOTയുടെ content ഉണ്ട് ഇപ്പോൾ GOTലെ offset ECXൽ എടുത്ത് contents EAX രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യുന്നു ഇപ്പോൾ EAX രജിസ്റ്ററിന് myglobന്റെ ശരിയായ address ഉണ്ട് ആ global ഡാറ്റയുടെ content EAX രജിസ്റ്ററിലേക്ക് ലോഡുചെയ്യുന്നു ഈ നിർദ്ദേശത്തിന്റെ അവസാനത്തിൽ EAX രജിസ്റ്ററിൽ myglobന്റെ content 32 ആണ് ഇതിലേക്ക് 5 കൂടി ചേർത്ത് ഈ data return ചെയ്യുന്നു നാം ഇപ്പോൾ compile ചെയ്ത ഫയലിന്റെ വിവിധ വിഭാഗങ്ങൾ നിർണ്ണയിക്കാൻ readelf എന്ന instruction ഉപയോഗിക്കുകയാണെങ്കിൽ complied fileൻറെ 19 ാം sectionൽ GOT യുണ്ടെന്ന് കാണാം ഇത് 584 ബൈറ്റുകളുടെ ഓഫ്സെറ്റിലാണ് starting addressൽ നിന്ന് 1584 എന്ന addressൽ കൂടാതെ relocatable data നോക്കുകയാണെങ്കിൽ GOTയിൽ myglobന്റെ ഓഫ്സെറ്റ് കാണാനും കഴിയും PIC ടെക്നിക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ലോഡ് ടൈം റീലോക്കേറ്റബിൾ ഉപയോഗിച്ചോ ഒരു ലൈബ്രറി എങ്ങനെ relocatable ആക്കാമെന്ന് ഇപ്പോൾ നമുക്കറിയാം ASLR എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നോക്കാം ഇത് മനസിലാക്കാൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സ്നിപ്പെറ്റുകൾ നോക്കേണ്ടതുണ്ട് ഒരു processലേക്ക് ബൈനറി ഡാറ്റ ലോഡുചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രോസസ്സിലേക്ക് ഒരു shared ലൈബ്രറി ലോഡുചെയ്യുമ്പോഴോ ഈ പ്രത്യേക ഓപ്പറേറ്റിംഗ് സിസ്റ്റം load elf binary എന്ന ഈ ഫംഗ്ഷൻ invoke ചെയ്യുന്നു ഈ ഫംഗ്ഷൻ randomize va spaceൻറെ value ഒന്നിനേക്കാൾ വലുതാണോ എന്ന് പരിശോധിക്കുന്നു ലിനക്സ് സിസ്റ്റങ്ങളിൽ randomize va spaceൽ 3 0 1 അല്ലെങ്കിൽ 2 എന്നീ values ആണ് store ചെയ്യപ്പെടുക അതിൻറെ value 1 അല്ലെങ്കിൽ 2 ആണെങ്കിൽ ആ പ്രത്യേക സിസ്റ്റത്തിൽ ASLR enabled ആണ് എന്നാണ് ഇതിനർത്ഥം അതിനാൽ സിസ്റ്റത്തിൽ ASLR പ്രവർത്തനക്ഷമമാക്കിയിട്ടുണ്ടെങ്കിൽ arch randomize break എന്ന function നമ്മൾ invoke ചെയ്യും ഈ ഫംഗ്ഷൻ ഒരു റാൻഡം address നൽകുന്നു ഈ addressലാണ് ലൈബ്രറി ലോഡുചെയ്യുന്നത് അങ്ങനെ ലൈബ്രറി ലോഡുചെയ്യുന്നതിന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം process address spaceൽ ഈ random address എങ്ങനെ ഉപയോഗിക്കുന്നുവെന്ന് നമ്മൾ കാണുന്നു ലോഡുചെയ്യുന്ന സമയത്ത് ലോഡർ GOT പൂരിപ്പിക്കുകയോ അല്ലെങ്കിൽ പ്രത്യേക സ്ഥലങ്ങളിലേക്ക് പോയി ആ global ഡാറ്റയിൽ addresses പൂരിപ്പിക്കുകയോ ചെയ്യും അതിനാൽ ഡാറ്റയ്ക്ക് പുറമേ ഫംഗ്ഷൻ പോലും relocatable ആക്കാൻ പറ്റും അടുത്ത പ്രഭാഷണത്തിൽ ഫംഗ്ഷനുകൾ എങ്ങനെ relocatable ആക്കാൻ സാധിക്കും എന്ന് നോക്കാം